സ്പാനിങ് ട്രീ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കായുള്ള ഒരു അൽഗോരിതം പ്രൈം അൽഗോരിതം ഞങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മൾ സംസാരിച്ച മറ്റൊരു തന്ത്രം നോക്കാം അതായത് ക്രുസ്കലിന്റെ അൽഗോരിതം അതിനാൽ വെയ്ഗ്റ്റഡ അൺഡിറക്ടഡ് ഗ്രാഫിൽ മിനിമം കോസ്റ് സ്പാനിങ് ട്രീ ഞങ്ങൾ നോക്കുന്നു അതിനാൽ പ്രൈമിന്റെ അൽഗോരിതം ചില എഡ്ജുകളിൽ നിന്ന് ആരംഭിച്ച് ക്രമേണ എഡ്ജിൽ ഒരു മരത്തിലേക്ക് വികസിക്കുന്നു അതേസമയം ക്രൂസ്കലിന്റെ അൽഗോരിതം മറ്റ് തന്ത്രങ്ങൾ പിന്തുടരുന്നു അതായത് എല്ലാ എഡ്ജുകളും ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക എന്നതാണ് അതിനാൽ ഇത് ചെറിയതിൽ നിന്ന് വലുത് വരെ എഡ്ജ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ എഡ്ജിലും ഒരു ട്രീടെ പ്രോപ്പർട്ടി ലംഘിക്കാതെ എഡ്ജ് ചേർക്കാൻ കഴിയുമെങ്കിൽ അത് കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ എഡ്ജ് ചേർക്കുന്ന പ്രക്രിയയിൽ അത് യഥാർത്ഥത്തിൽ ഒരു ട്രീ നിർമ്മിക്കാനിടയില്ല അത് ഉറപ്പുവരുത്തുക അത് ട്രീടെ പ്രോപ്പർട്ടി ലംഘിക്കുന്നില്ല പിന്നെ അത് ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നില്ല അതിനാൽ ഞങ്ങൾ എഡ്ജുകൾ ചേർക്കുന്നത് തുടരുകയാണെങ്കിൽ നമ്മൾ ഒരു സൈക്കിൾ ഉൽപാദിപ്പിക്കാത്തിടത്തോളം കാലം അവസാനം നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഒരു വൃക്ഷം മിനിമം കോസ്റ് സ്പാനിങ് ട്രീ ലഭിക്കും അതിനാൽ അൽഗോരിതത്തിന്റെ ഉയർന്ന തലത്തിലുള്ള ഒരു കാഴ്ച ഇവിടെയുണ്ട് അതിനാൽ എഡ്ജുകൾ e 1 മുതൽ e m വരെ ക്രമീകരിക്കട്ടെ അതിനാൽ ഞങ്ങൾ ഒരു ഒഴിഞ്ഞ ട്രീൽ നിന്ന് ആരംഭിക്കുന്നു അതിനാൽ വീണ്ടും ഞങ്ങൾ വൃക്ഷത്തെ എഡ്ജുകളുടെ പട്ടികയായി നിലനിർത്തും ഇപ്പോൾ ഞങ്ങൾ ഇത് 1 മുതൽ m വരെ ക്രമത്തിൽ സ്കാൻ ചെയ്യാൻ പോകുന്നു അതിനാൽ അടുത്തതായി ശ്രമിക്കേണ്ട എഡ്ജിന്റെ സൂചിക i ആകട്ടെ അതിനാൽ ഞങ്ങൾ ഇതുവരെ n മൈനസ് 1 എഡ്ജുകൾ ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ n മൈനസ് 1 എഡ്ജുകൾ ചേർക്കുകയും ഞങ്ങൾക്ക് കണക്റ്റുചെയ്ത ഗ്രാഫ് ഉണ്ടെങ്കിൽ അത് ഒരു ട്രീയിരിക്കുകയും വേണം ട്രീനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ വിവിധ സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇത് ട്രീ n മൈനസ് 1 എഡ്ജുകളാണ് പക്ഷേ n മൈനസ് 1 ഉള്ള ഏതെങ്കിലും കണക്റ്റുചെയ്ത ഗ്രാഫ് അത് ആയിരിക്കണം അതിനാൽ നമുക്ക് n മൈനസ് 1 എഡ്ജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താനാകും അതിനാൽ എഡ്ജുകളുടെ എണ്ണത്തിൽ ട്രീന്റെ നീളം n മൈനസ് 1 അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എഡ്ജുകൾ കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ അടുത്ത E i നോക്കുന്നു ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്ന TE ൽ ചേർക്കുമ്പോൾ E i ഒരു സൈക്കിൾ രൂപപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾ i പ്ലസ് 1 നോക്കുന്നു അത് ഒരു സൈക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉപേക്ഷിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ഇതാണ് എല്ലാം ക്രുസ്കലിന്റെ അൽഗോരിതങ്ങൾ റഫർ സമയം 0149 എല്ലാ എഡ്ജുകളിലൂടെയും സ്കാൻ ചെയ്ത് ഞങ്ങൾ ഒരു ട്രീ കണ്ടെത്തുന്നതുവരെ അത് ഓരോ എഡ്ജുകളിലേക്കും മാറിമാറി ക്രമത്തിൽ നോക്കിക്കൊണ്ടിരിക്കും ഓരോ തവണയും ഒരു സൈക്കിൾ രൂപപ്പെടാതെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെങ്കിൽ അത് രൂപീകരിക്കാതെ ചേർക്കാനാവില്ല സൈക്കിൾ അത് കുറയും അതിനാൽ ഒരു പ്രിമിന്റെ അൽഗോരിതങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്ന അതേ ഉദാഹരണം നോക്കാം അതിനാൽ ഇവിടെ ഈ ചെറിയ എഡ്ജ് വെയിറ്റുകളും ഓർക്കുന്നു ഞങ്ങളും അത് അടുക്കിയിരിക്കുന്നു അതിനാൽ 5 ആണ് ഏറ്റവും ചെറിയത് 6 അപ്പോൾ നമുക്ക് 3 ന്റെ ഭാരം 10 ഉണ്ട് അപ്പോൾ നമുക്ക് 18 ഉണ്ട് പിന്നെ നമുക്ക് 20 ഉണ്ട് അതിനുശേഷം നമുക്ക് 70 ഉണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ 3 ചെറിയവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ എഡ്ജ് 5 ൽ നിന്ന് ആരംഭിച്ച് ആദ്യം ഞങ്ങളുടെ എഡ്ജ്ൽ 5 എഡ്ജ് ചേർക്കുന്നു ഇപ്പോൾ അടുത്തത് 6 ആണ് അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രീൽ 6 ചേർക്കുന്നു ഇപ്പോൾ 10 എന്ന് ലേബൽ ചെയ്തിട്ടുള്ള എഡ്ജുകളിലൊന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാം അതിനാൽ ഞങ്ങൾ ഇത് തിരഞ്ഞെടുക്കുമെന്ന് കരുതുക ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു എഡ്ജ് ലേബൽ 10 തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അടുത്ത രണ്ട് എഡ്ജുകൾ വീണ്ടും ലേബൽ 10 അതിനാൽ ഈ എഡ്ജ് ലേബൽ 10 ഈ എഡ്ജ് ലേബൽ 10 തിരഞ്ഞെടുക്കുക ഈ സൈക്കിൾ ഉണ്ടാക്കുക അതിനാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ അത് ഉപേക്ഷിച്ചു ഞങ്ങൾ അത് വിയോജിക്കുകയും അടുത്തതിലേക്ക് പോകുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ ഇത് തിരഞ്ഞെടുക്കുന്നുതിനാൽ ഞങ്ങൾ ഇത് മറികടന്ന് ഇപ്പോൾ ഇതിലേക്ക് പോകും ഇപ്പോൾ ഇത് ഒരു ഓർഡർ ഉണ്ടാക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ പത്ത് പൂർത്തിയാക്കി അതിനാൽ അടുത്തത് 18 ആണ് പക്ഷേ വീണ്ടും 18 ചേർത്തു ഞങ്ങൾ ഒരു സൈക്കിൾ രൂപപ്പെടുത്താൻ പോകുന്നു അതിനാൽ ഞങ്ങൾ അത് നിരസിച്ചു ഇപ്പോൾ ഞങ്ങൾ അടുത്ത വഴിയിലേക്ക് പോകുന്നു ഇപ്പോൾ 20 കൂട്ടിച്ചേർത്തപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് 1 2 3 4 5 എഡ്ജുകൾ മതിയായ എഡ്ജുകൾ ചേർക്കാൻ വൈദഗ്ദ്ധ്യം ഉണ്ട് ഞങ്ങൾക്ക് 6 ആവശ്യമാണ് കാരണം ഞങ്ങൾക്ക് 7 വേർട്ടക്സുകൾ വേഗത്തിൽ ഉണ്ട് ഞങ്ങൾ n മൈനസ് 1 എഡ്ജുകൾ നേടുക അതിനാൽ ഈ 70 മാത്രമാണ് എഡ്ജുകൾള്ളത് അതിനാൽ ഞങ്ങൾക്ക് അത് ഒരു വിധത്തിൽ ഉണ്ട് അതിനാൽ ഇത് ക്രൂസ്കലിന്റെ അൽഗോരിതത്തിന്റെ സ്പാനിങ് ട്രീ രൂപമാണ് ഈ പ്രത്യേക കേസിലെ എല്ലാ എഡ്ജുകൾ കളിലൂടെയും ഞങ്ങൾ സ്കാൻ ചെയ്യുന്നു വഴിയിൽ ഞങ്ങൾ കപ്ലർ ഉപേക്ഷിച്ചു അതിനാൽ ക്രുസ്കലിന്റെ അൽഗോരിതങ്ങൾ ഒരു ഗ്രീഡി അൽഗോരിതം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല അതിനാൽ പ്രൈം അൽഗോരിതങ്ങളിൽ ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെ ഞങ്ങൾ വർദ്ധിച്ചുവരുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു ഓരോ ഘട്ടത്തിലും പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കും അടുത്തതായി ഇപ്പോൾ നമുക്ക് അറിയാവുന്നതിനെ അടിസ്ഥാനമാക്കി ഇവിടെ ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നു തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നു എല്ലാ എഡ്ജുകളും ക്രമപ്പെടുത്തി ആ ക്രമത്തിൽ ചെയ്യട്ടെ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ച ഈ പ്രത്യേക ക്രമത്തിൽ ഇത് ചെയ്യുന്നത് വ്യക്തമല്ല അതിനാൽ പ്രൈമിന്റെ അൽഗോരിതം മിനിമം സെപ്പറേറ്റർ ലെമ്മയ്ക്കായി ഞങ്ങൾ ഉപയോഗിച്ച അതേ ഫലം ഒരിക്കൽ കൂടി ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ ലെമ്മ പറഞ്ഞത് ഓർക്കുക നിങ്ങൾ ഒരു കൂട്ടം വേർട്ടക്സുകൾ എടുത്ത് ശൂന്യമല്ലാത്ത രണ്ട് ഗ്രൂപ്പുകളായി U W എന്നിങ്ങനെ വേർതിരിക്കുകയും ഞങ്ങൾ ഏറ്റവും ചെറിയ എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാഫ് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ ഉപകരണത്തെ ബന്ധിപ്പിക്കുന്ന ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം രണ്ട് ഭാഗങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ എഡ്ജുകൾ ഞങ്ങൾ എടുക്കുന്നു തുടർന്ന് ഈ എഡ്ജ്ൽ എല്ലാ സ്പാനിങ് ട്രീ ഉണ്ടായിരിക്കണം ഓരോ മിനിമം കോസ്റ് സ്പാനിങ് ട്രീ ഇതാണ് ലെമ്മ പറഞ്ഞത് അതിനാൽ ഞങ്ങൾ ഒരു എഡ്ജ് ചേർക്കുമ്പോഴെല്ലാം എഡ്ജ്ല്ല അത് 2 n പോയിന്റുകളാണ് വിഘടിക്കുന്ന ഘടകങ്ങളിൽ അതിനാൽ ഞങ്ങൾ ലെമ്മ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ U എന്ന് വിളിക്കാം എഡ്ജ്ന്റെ ഒരു n പോയിന്റ് അടങ്ങിയ ഘടകമായി നമുക്ക് പറയാം ക്യാപിറ്റൽ W എന്നത് ബാക്കിയുള്ളതായിരിക്കും അതിനാൽ ഇത് പുറത്ത് എന്താണെങ്കിലും ഇതാണ് ബാഹ്യഘടകം അതിനാൽ ഞങ്ങൾക്ക് U ഉണ്ട് അത് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്തും അതിനാൽ ഇത് എന്റെ സെറ്റ് U ആണ് അതിനുശേഷം എനിക്ക് ബാക്കിയുള്ള വേർട്ടക്സുകൾ ഉണ്ട് അതിനാൽ U ഈ ഘട്ടത്തിൽ മറ്റൊരു ഘടകത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ മറ്റെല്ലാ ഘടകങ്ങളെയും ഞാൻ ആ W എന്ന് വിളിച്ചു അതിനാൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്നത് ഇതാദ്യമായാണ് ഞങ്ങൾ U V U V എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ എഡ്ജുകൾ നോക്കുന്നത് ഭാരത്തിന്റെ ആരോഹണ ക്രമമാണ് അതിനാൽ നിങ്ങൾ എല്ലാ എഡ്ജുകൾ നോക്കുകയാണെങ്കിൽ അതിനാൽ ഈ നിലവിലെ അറ്റത്തെ ഞങ്ങൾ e j എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ എല്ലാ എഡ്ജുകളും നോക്കിയാൽ നിങ്ങൾ e j മൈനസ് 1 അല്ല അവയിൽ നിന്ന് U Vയിലേക്ക് കണക്റ്റുചെയ്തിട്ടില്ല ആരും U ബന്ധിപ്പിക്കുന്ന ഘടകം കാരണം V അടങ്ങിയ ഘടകത്തിലേക്ക് U അടങ്ങിയ ഘടകം ഉണ്ടായിരുന്നെങ്കിൽ ഈ എഡ്ജ് എപ്പോൾ ചേർക്കാം ഈ എഡ്ജ് ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നു അതിനാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രണ്ട് നീക്കങ്ങളിലൂടെ നമുക്ക് കണക്റ്റുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യ ഘട്ടമാണിത് അതിനാൽ ഇവയും ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇതെല്ലാം ഒന്നിച്ചുചേർത്താൽ ക്യാപിറ്റൽ U നെ ക്യാപിറ്റൽ V യ്ക്ക് പുറത്തുള്ള ഒന്നിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ എഡ്ജ് ആണിത് ഇത് ഏറ്റവും ചെറിയ ഘട്ടമായതിനാൽ ഇത് ട്രീൽ ഉണ്ടായിരിക്കണമെന്ന് ലെമ്മ നമ്മോട് പറയുന്നു അതിനാൽ ഈ ട്രീൽ ഉൾപ്പെടുത്താനുള്ള ക്രുസ്കലിന്റെ ആശയം ശബ്ദമാണ് ഇത് ഒരു എഡ്ജ് ആണ് അത് ഇൻപുട്ട് ട്രീ ആയിരിക്കണം അതിനാൽ ക്രൂസ്കലിന്റെ അൽഗോരിതം ചേർക്കുന്ന ഓരോ എഡ്ജ്ഉം യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ വേർതിരിക്കലിൽ സാധുവായ ഒരു ന്യായീകരണമാണ് അതിനാൽ ഒരു സൈക്കിൾ രൂപപ്പെടുത്തുന്ന ഈ പ്രോപ്പർട്ടി ട്രാക്ക് എങ്ങനെ സൂക്ഷിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് ഓർക്കുക ഞങ്ങൾ എഡ്ജ് ചേർക്കുമ്പോഴെല്ലാം നിങ്ങൾ ആദ്യം അത് സൈക്കിൾ ഫോം പരിശോധിക്കണം അത് ഒരു സൈക്കിൾ രൂപപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അതിനാൽ പരിശോധിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എഡ്ജ് ഒരു സൈക്കിൾ രൂപപ്പെടുന്നില്ല ഘടകങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുക എന്നതാണ് രണ്ട് വ്യത്യസ്ത ഘടകങ്ങളിൽ എഡ്ജ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് എഡ്ജുകളുടെ ഒരു n പോയിന്റും ഒരു ഘടകവും ഒരു n പോയിന്റും ആണ് മറ്റ് ഘടകങ്ങളിൽ എഡ്ജുകൾ അപ്പോൾ ഓരോ ഘടകങ്ങളും ഒരു ട്രീ ആണ് അതിനാൽ ഈ രണ്ട് ട്രീ വേർപിരിയുന്നു അതിനാൽ പുതിയ എഡ്ജ് ഒരു സൈക്കിൾ രൂപപ്പെടുന്നില്ല രണ്ട് n പോയിന്റുകളും ഒരേ ഘടകത്തി എഡ്ജ്ലാണെങ്കിൽ അത് ഒരു സൈക്കിൾ രൂപപ്പെടുത്തും അതിനാൽ ഒരു പുതിയ എഡ്ജ് രൂപങ്ങളല്ലേ എന്ന് നിരീക്ഷിക്കുന്നത് ഘടകങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഘടകങ്ങളുടെ ട്രാക്ക് എങ്ങനെ സൂക്ഷിക്കാം നന്നായി നമുക്ക് അടിസ്ഥാനപരമായി ഘടകങ്ങളെ അക്കങ്ങളാൽ ലേബൽ ചെയ്യാൻ കഴിയും കാരണം നമുക്ക് ക്രൂസ്കലിന്റെ അൽഗോരിതംസിന്റെ പ്രാരംഭ ഘട്ടത്തിൽ എഡ്ജ്കളില്ലാത്ത എല്ലാ n സ്വതന്ത്ര വേർട്ടക്സുകൾ ഉണ്ട് എല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ തുടക്കത്തിൽ നമ്മൾ n വേർട്ടക്സുകൾ n ഘടകങ്ങളാണ് പറയാൻ ഏറ്റവും കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കാര്യം എന്നാൽ ഓരോ വേർട്ടക്സുകൾ i യുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ u എന്ന ഘടകം v യുടെ ഘടകത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ എനിക്ക് ഒരു എഡ്ജ് ചേർക്കാം കൂടാതെ v യുടെ ഘടകങ്ങളിൽ നിന്ന് u വ്യത്യസ്തമായ ഘടകത്തിൽ ഇത് സംഭവിക്കുന്നത് രണ്ട് ഘടകങ്ങളും ഒന്നായിത്തീരുന്നു അതിനാൽ രണ്ട് ഘടകങ്ങളും ലയിപ്പിക്കുന്നതിന് ചിലത് ചേർക്കുക മറ്റൊന്നിൽ ഒരേ ലേയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഇപ്പോൾ അൽഗോരിതത്തിന്റെ വിശദമായ വിശദീകരണമാണ് അതിനാൽ ഭാരം അനുസരിച്ച് അടുക്കിയിരിക്കുന്ന എഡ്ജ്കളായി e1 മുതൽ e m വരെ അനുവദിക്കുന്നതിനുമുമ്പ് തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ഓരോ വേർട്ടക്സുകൾ 1 t ഓരോ ഘടകത്തിനും jയുടെ ഓരോ ഘടകത്തിനും ഇടയിൽ തന്നെ j ആണ് അതിനാൽ 1 എന്നത് ഘടകങ്ങളാണ് 1 ഉം 2 ഉം ഘടകങ്ങളാണ് 2 എന്നിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരു ശൂന്യമായ എഡ്ജുകൾ ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഇപ്പോൾ ഈ എഡ്ജുകൾ ആരോഹണ ക്രമത്തിൽ സജ്ജമാക്കുമ്പോൾ ഞങ്ങൾ നോക്കാൻ പോകുന്നു അതിനാൽ അടുക്കിയിരിക്കുന്ന ശ്രേണിയിലെ ആദ്യ അരികിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന സൂചിക ഞങ്ങൾക്കുണ്ട് അതിനാൽ ഇത് എന്റെ സൂചികയാണ് അതിനാൽ ഞങ്ങൾ അതിനെ മൈനസ് എഡ്ജുകൾ ചേർക്കാത്തിടത്തോളം കാലം ഈ അടുക്കിയിരിക്കുന്ന ക്രമത്തിൽ ഞങ്ങൾ i എഡ്ജ് നോക്കുന്നു ഇത് u മുതൽ v വരെയാണ് uന്റെ നിലവിലെ ഘടകം vയുടെ നിലവിലെ ഘടകത്തിൽ വ്യത്യസ്തമാണെങ്കിൽ ഞങ്ങൾ ചേർത്ത എഡ്ജുകൾ ഒരു സൈക്കിൾ രൂപപ്പെടുന്നില്ലെന്ന് ഉറപ്പാണ് അതിനാൽ ഞങ്ങൾ ഒരു ട്രീ ചേർത്തു ഇപ്പോൾ ഞങ്ങൾ ഈ ഘടകങ്ങളുടെ ലയനം നടത്തണം ഇപ്പോൾ വേർട്ടക്സ്ന്റെ ഘടകം എന്നത് ഒരു സംഖ്യ മാത്രമാണ് അതിനാൽ ഞങ്ങളുടെ സെറ്റിലെ എല്ലാ j യ്ക്കും ഇപ്പോൾ പ്രശ്നം ഈ ഘടകങ്ങൾ നേരത്തെ ലയിപ്പിക്കാമായിരുന്നു എന്നതാണ് അതിനാൽ u ന്റെ ഘടകങ്ങൾക്ക് മറ്റ് വേർട്ടക്സുകൾ ഉൾക്കൊള്ളാൻ കഴിയും മറ്റ് വേർട്ടക്സുകൾക്ക് v സാധ്യമാണോ അവയെല്ലാം ഇപ്പോൾ ഞങ്ങൾ ഒരേ ഘടക സംഖ്യ നൽകണം അതിനാൽ അവയെല്ലാം പുതിയ ഒരേ സംഖ്യകളായതിനാൽ എനിക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല എന്റെ സെറ്റ് വെർട്ടീസുകളിലെ ഓരോ jയും സ്കാൻ ചെയ്യുക അത്തരം jയിൽ v ഉള്ള അതേ ഘടകങ്ങൾ ഉള്ളപ്പോൾ ഞാൻ ഏത് ഘടകമാണ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യുന്നത് അതിനാൽ ഇതിന് ശേഷം v ന്റെ അതേ ഘടക സംഖ്യയുള്ള എല്ലാം അതേ ഘടക സംഖ്യകൾ u നേടി അതിനാൽ ഫലപ്രദമായി രണ്ട് ഘടകങ്ങളും ലയിപ്പിച്ചു ഒരു ഘടകമായി എല്ലാ മൂല്യ ഘടകങ്ങളും ഉപയോഗിച്ച് ലേബൽ ചെയ്യുക അതിനാൽ ഇത് ക്രുസ്കലിന്റെ അൽഗോരിതങ്ങളാണ് എഡ്ജുകൾ പരിഗണിക്കുന്നത് തുടരുക അവ വ്യത്യസ്ത ഘടകങ്ങൾ ബന്ധിപ്പിച്ച് ഘടകങ്ങൾ ലയിപ്പിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങളെ ബന്ധിപ്പിച്ചില്ലെങ്കിൽ അത് ഒരു രൂപം ഉണ്ടാക്കും അതിനാൽ ക്രുസ്കലിന്റെ അൽഗോരിതംസിന്റെ ആദ്യപടിയായി എത്രമാത്രം സങ്കീർണതയുണ്ട് എഡ്ജുകൾ അടുക്കാൻ അത് ആവശ്യമാണ് അതിനാൽ നമുക്ക് n ലയനങ്ങളും m ലോഗ് m സമയവും ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ n എന്നത് മിക്കവാറും n ചതുരമാണ് അതിനാൽ ലോഗിൻ 2 മടങ്ങ് ലോഗ് n ആയിരിക്കും അതിനാൽ ലോഗ് n ന്റെ ക്രമം ലോഗ് m ന്റെ ക്രമത്തിന് തുല്യമാണ് അതിനാൽ എനിക്കും ഇത് എഴുതാം m log n അതിനാൽ ഇത് എഴുത്തിന്റെ മറ്റൊരു മാർഗ്ഗം മാത്രമായിരിക്കും അതിനാൽ ഈ സോർട്ടിംഗ് ടെക്സ്റ്റ് m log m സമയം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ബാഹ്യ ലൂപ്പ് ഉണ്ട് Refer Time 1100 അതിനാൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ലൂപ്പ് പൊതുവേ ഈ ലിസ്റ്റിലെ എല്ലാ എഡ്ജുകളിലൂടെയും പ്രവർത്തിക്കുന്നു കാരണം ചില കാരണങ്ങളാൽ അവസാനത്തേത് ട്രീ കണ്ടെത്തിയത് നന്നായി മറിച്ച് ഏറ്റവും വലിയ എഡ്ജ്ൽ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ പോലും ട്രീ ഉൾപ്പെടുത്തണം കാരണം ചില പ്രത്യേക വേർട്ടക്സുകൾ നമ്മെ ബന്ധിപ്പിക്കുന്നത് അത് മാത്രമാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ബാഹ്യ ലൂപ്പ് ഉണ്ട് ഇത് ഒരു m ടെക്സ്റ്റാണ് ഇപ്പോൾ ഈ m സമയങ്ങളിൽ ഞങ്ങൾ ചേർക്കുന്ന ഓരോ എഡ്ജിനുമുള്ള ഘടകങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അത് മൈനസ് 1 തവണ മാത്രമേ സംഭവിക്കൂ പക്ഷേ ഞങ്ങൾ ഘടകം അപ്ഡേറ്റുചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഘടകങ്ങളുടെ നമ്പർ മാറ്റുന്നതിന് നമുക്ക് എല്ലാ വേർട്ടക്സുകൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ഘടകത്തിന്റെ ഓരോ അപ്ഡേറ്റും ഓരോ ലയന ഘടകങ്ങളും ഓർഡർ n സമയമാണ് ഇത് തന്നെ 1 തവണ മൈനസ് സംഭവിക്കുന്നു കാരണം ഓരോ തവണയും ഞങ്ങൾ ട്രീയിൽ ഒരു എഡ്ജ് ചേർക്കുമ്പോൾ കൃത്യമായി n മൈനസ് 1 അതിനാൽ നമുക്ക് 1 മൈനസ് 1 അപ്ഡേറ്റുകളും ഓരോ അപ്ഡേറ്റ് ടെക്സ്റ്റ് ഓർഡറും n തവണയും ഉണ്ടായിരിക്കണം അതിനാൽ n ചതുര ക്രമത്തിൽ ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള സങ്കീർണ്ണതയുണ്ട് ഇപ്പോൾ പ്രിൻസ് അൽഗോരിതം n സ്ക്വയർ ഏറ്റവും മോശം അവസ്ഥയാണെന്ന് ഓർക്കുക തുടർന്ന് മെച്ചപ്പെട്ട ഡാറ്റാ ഘടന ഉപയോഗിച്ച് നമുക്ക് അത് n പ്ലസ് m log n ലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ നമുക്ക് ഇവിടെ എന്തുചെയ്യാൻ കഴിയും നമുക്ക് പ്രശ്നം നോക്കാം പ്രശ്നം അടിസ്ഥാനപരമായി ഈ ലേബലിംഗ് തന്ത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഘടകങ്ങൾ ലേബൽ ചെയ്ത് ഈ ലീനിയർ സ്കാൻ ചെയ്യുമ്പോൾ ഘടകങ്ങൾ ലയിപ്പിക്കുന്നതിന് ഞങ്ങൾ ഓർഡർ n സമയം ചെലവഴിക്കുന്നു അതിനാൽ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം പ്രിൻസ് അൽഗോരിതം എന്നിവയ്ക്കായി സ്ട്രാക്ട്റെ ഉപയോഗിക്കാവുന്നതുപോലെ അവ വേഗത്തിൽ ചേർക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശീർഷകം കണ്ടെത്താനും ദൂരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ഘടക ഘടന നിലനിർത്തുകയാണെന്ന് ഇവിടെ കാണാം അതിനാൽ വ്യത്യസ്ത ഘടകങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെറ്റ് v കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ a b c d e എന്ന് വിളിക്കുന്ന ഏത് സമയത്തും ഇതിന് ഘടകങ്ങളുണ്ട് തുടർന്ന് എനിക്ക് ഈ ഘടകങ്ങളിൽ ഉൾപ്പെടുന്ന വ്യക്തിഗത ഘടകങ്ങളുണ്ട് അതിനാൽ അവയുടെ ആകെത്തുക പലതാണ് ഒന്നിന്റെ ആകെത്തുക അങ്ങനെ അതിനാൽ നിങ്ങൾ ചെയ്യാനാഗ്രഹിക്കുന്ന ഒരു കാര്യം വെർട്ടെക്സ് v എന്ന പേര് നൽകിയിരിക്കുന്നു ഏത് ഘടകങ്ങളാണ് ഉൾപ്പെടാത്തതെന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇതിനെ കണ്ടെത്തൽ എന്ന് വിളിക്കുന്നു ഘടകം കണ്ടെത്തുക എന്നാൽ മറ്റേത് ശീർഷകത്തിന് നൽകിയിരിക്കുന്നു അതിനാൽ എനിക്ക് ഒരു u v നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഇത് രണ്ടും ലയിപ്പിക്കുക എന്ന് പറയും അതിനാൽ ഈ രണ്ട് ഘടകങ്ങളും എടുത്ത് അതേ പേര് നേടുക അതിനാൽ ഒന്നുകിൽ അവയെല്ലാം c എന്ന് വിളിക്കുക അല്ലെങ്കിൽ d എന്ന് വിളിക്കുക അതിനാൽ ഇതിനെ യൂണിയൻ എന്ന് വിളിക്കുന്നു യൂണിയൻ ഘടകങ്ങളെ എടുക്കുന്നില്ല അതിന് രണ്ട് പ്രതിനിധികൾ ഒരു പ്രതിനിധി ഒരു ഘടകം മറ്റ് ഘടകങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നിവരും ഘടകങ്ങളിൽ ഉള്ളതെല്ലാം ലയിപ്പിക്കുന്നു ഘടകത്തിന്റെ v ൽ എല്ലാം ഉള്ള u ഇവ രണ്ട് പ്രവർത്തനങ്ങളാണ് വ്യക്തമായും നമ്മൾ ചെയ്യുന്നത് ക്രുസ്കലിന്റെ അൽഗോരിതം ആണ് കണ്ടെത്തുക v എന്നത് നമുക്ക് ഒരു എഡ്ജ്ണ്ടെങ്കിൽ എന്താണ് v അതേ ഘടകം പരിശോധിക്കാൻ v എന്ന ഘടകം പരിശോധിക്കുന്നു അതിനർത്ഥം ഉൾപ്പെടുത്തൽ ഘടകം വ്യത്യസ്തവും വ്യത്യസ്തവുമായ ഘടകങ്ങളാണ് നമുക്ക് ഈ എഡ്ജ് ചേർക്കാം ഇപ്പോൾ നിങ്ങൾ എഡ്ജ് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഞങ്ങൾ യൂണിയൻ v ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇവ കൃത്യമായി രണ്ട് പ്രവർത്തനങ്ങളാണ് ഈ രണ്ട് പ്രവർത്തനങ്ങൾ കാരണം യൂണിയൻ കണ്ടെത്തൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഡാറ്റ ഘടന ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തും ഇത് യഥാർത്ഥത്തിൽ ഇത് കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും കൂടാതെ കാര്യക്ഷമമായി എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം ഈ n ചതുരത്തിലുള്ള കാര്യം ഇല്ലാതാക്കാനും എല്ലാം m log n ന്റെ വിലയിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഇത് ഓർക്കുക നമുക്ക് ഇത്തരത്തിലുള്ളത് ആവശ്യമാണ് ഞങ്ങളുടെ ആദ്യപടി ക്രൂസ്കലിന്റെ അൽഗോരിതങ്ങൾക്കായുള്ള എഡ്ജുകൾ എഡ്ജുകളിൽ അടുക്കുന്നതിലൂടെ അടുക്കുന്നു അതിനാൽ m log n എന്നത് എഡ്ജുകൾ അടുക്കാൻ നമുക്ക് തുല്യമായ ഒന്നാണ് ഇതുകൂടാതെ ഈ അടിസ്ഥാനപരമായി ഈ അപ്ഡേറ്റുകൾ ഒരു സ്ട്രാക്ട്റെലെന്നപോലെ യൂണിയൻ കണ്ടെത്തുന്ന അപ്ഡേറ്റുകൾ യഥാർത്ഥത്തിൽ log n റിവേഴ്സ് ചെയ്യുന്നു അവ ഈ ആവർത്തന ലൂപ്പിൽ സംഭവിക്കുന്ന ഒരു അപ്ഡേറ്റുകളായിരിക്കുമെന്ന് ഓർമ്മിക്കുക അതിനാൽ ഇപ്പോൾ പ്രൈമിന്റെ അൽഗോരിതം സങ്കീർണ്ണതയ്ക്ക് സമാനമായ എന്തെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്നു